നമസ്കാരം നമുക്ക് ഇന്ന് നോഎസ്ക്യൂഎൽനെ കുറിച്ചുള്ള ഒരു പുതിയ പാഠ ഭാഗം തുടങ്ങാം നോഎസ്ക്യൂഎൽ നെ കുറിച്ചും ബിഗ് ഡേറ്റാ യേയും കുറിച്ചായിരിക്കും ഈ കോഴ്സിന്റെ അവസാനം വരുന്ന മോഡ്യൂളുകളിൽ വരുന്നത് ശ്രദ്ധിക്കുകഇവ അണ്ടർഗ്രാജേവ്റ്റ് ഡേറ്റാബെയ്സ് കോഴ്സിന്റെ പുതിയതായി ചേർത്തിട്ടുള്ള ഭാഗങ്ങൾ ആണ് കാരണം ഇത് ഡേറ്റബെയ്സ് പാരാടിഗിമ്മിലെ പുതിയ പുരോഗമനങ്ങൾ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നോഎസ്ക്യൂഎൽ വച്ച് തുടങ്ങാം എന്തു കൊണ്ടാണ് ഇതിനെ നോഎസ്ക്യൂഎൽ എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താണ് എസ്ക്യൂഎൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിലേഷനൽ ഡേറ്റാ ബെയ്സ് മാനേജ്മെന്റ് സിസ്റ്റം അതായത് RDBMS അപ്പോൾ എസ്ക്യൂഎൽ എന്നത് ഒരു ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാമിഗ് ടൂൾ ആണ് റിലേഷനൽ ഡേറ്റാ ബെയ്സ്കളെ കൈകാര്യം ചെയ്യുന്നതിനായി അതിനെ ഉപയോഗിക്കുന്നു നോഎസ്ക്യൂഎൽ എന്നത് അപ്പോൾ എസ്ക്യൂഎൽ അല്ല എന്നാണ് പറയുന്നത് കാരണം എസ്ക്യൂഎൽ എന്നത് റിലേഷനൽ ഡേറ്റാബെയ്സ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഇതാണ് അപ്പോൾ RDBMS ഇത് റിലേഷനൽ ആണ് ഈ മോഡ്യൂളുകളുടെ തുടക്കത്തിൽ വച്ച് നമ്മൾ പഠിച്ചു കൊണ്ടിരുന്ന റിലേഷനൽ മോഡൽ ആണ് ഇത് നമ്മൾ റിലേഷനൽ ഓൾജിബ്രാ റിലേഷനൽ മോഡൽ എന്നിവ നോക്കിയിരുന്നു ഇത് തുടങ്ങുന്നത് നോഎസ്ക്യൂഎൽ ആയിട്ടാണ് ഈ നോഎസ്ക്യൂഎൽ ഡേറ്റാബെയ്സ് തുടങ്ങുന്നതു തന്നെ അത് റിലേഷനൽ ഡേറ്റ ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞു കൊണ്ടാണ് അത് ACID ന്റെ പ്രോപ്പർട്ടിസ് ഉപയോഗിക്കുകയില്ല എന്നാണ് വരുന്നത് പിന്നെ അറ്റോമിസിറ്റി കൺസിസ്റ്റെൻസി ഐസോലേഷൻ ഡ്യൂറബിലിറ്റി എന്നിവ ഒന്നും ഉപയോഗിക്കുകയില്ല അവ വേറെ ചിലതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ലോകം മുഴുവനുമുള്ള ഡേറ്റാബേസ് റിസേർചേഴ്സും ഡേറ്റാബേസ് കമ്മ്യൂണിറ്റിയും RDBS നെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല എന്നും അത് വളരെ ശക്തിയേറിയതാണ് എന്നും മനസ്സിലാക്കി അപ്പോൾ അവർ ടQL മാത്രം ഉപയോഗിക്കണ്ട എന്നുള്ള നിഗമനത്തിൽ എത്തി അപ്പോൾ NoSQL എന്ന് ഉദ്ദേശിക്കുന്നത് SQLനെ മാത്രം ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇതാണ് ഇതിന്റെ യഥാർത്ഥ അർത്ഥം SQL മാത്രം ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇതിനെ പരിമിതപ്പെടുത്തിയിട്ടില്ല SQL എന്നത് ഇവിടെ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് അത് SQL മാത്രം അല്ലെങ്കിൽ RDBMS മാത്രമായിട്ട് ഉപയോഗിക്കുന്നില്ല വേറെയും അതിന്റെ കൂടെ ഉപയോഗിക്കുന്നു ഇവിടെ ആശയം എന്നത് ആസിഡ് പ്രോപ്പർട്ടിയിൽ നിന്ന് പുറത്തുവരുക എന്നതാണ് ആസിഡ് പ്രോപ്പർട്ടിയെ പിൻതുടരാതിരിക്കാൻ വേണ്ടി ആസിഡ് പ്രോപ്പർട്ടി അല്ലാത്ത മറ്റൊന്നിനെ പിൻതുടരാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ഇനി നമുക്ക് NoSQL സിസ്റ്റത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നോക്കാം ആദ്യത്തേത് സ്കെയിലബിലിറ്റി ഡേറ്റാബേസുകൾ പറയുന്നത് റിലേഷണൽ ഡേറ്റാബേസുകൾ സ്കെയിലബിൾ ആണ് എന്നാണ് അതിന് വളരെ വലിയ ഡേറ്റ വരെ പോകാൻ സാധിക്കും പക്ഷെ എന്നാലും നമ്മൾ വലിയ പ്രോജക്റ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സ്കെയിലബിലിറ്റിയിൽ പ്രശ്നം വരാറുണ്ട് ഉദാഹരണത്തിന് മൊത്തം ഗുഗിൾ വെബ് പേജിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രാഫിൽ ഉള്ളത് വളരെ കൂടുതൽ ആയിരിക്കും അപ്പോൾ റിലെഷൻ ഡേറ്റാ ബെസ് മോഡൽ അതിനെ സ്കെയിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആകാം അവിടെ നടക്കുന്ന പരിശോധനകൾ സ്കെയിൽ ചെയ്യാം ചെയ്യാതിരിക്കാം അതുപോലെ തന്നെ എല്ലാ ട്രാൻസാക്ഷനുകളെയും ഷെഡ്യൂളുകളെയും നന്നായി റൺ ചെയ്യിപ്പിക്കാം ചെയ്യിപ്പിക്കാതെയിരിക്കാം അപ്പോൾ സ്കെയിലബിലിറ്റി എന്നത് ഡേറ്റയുടെ വോളിയമാണ് വോളിയത്തെ ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇവിടത്തെ ലക്ഷ്യം എന്നത് സിസ്റ്റത്തെ കഴിവതും സ്കേയിലബിൾ ആക്കാൻ നോക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡേറ്റയെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ ഇതിൽ കയറ്റുവാൻ സാധിക്കും അടുത്തത് ഫെളക്സിബിലിറ്റി ഫെളക്സിബിലിറ്റി എന്നാൽ റിലേഷനൽ ഡേറ്റാ ബെയ്സ് മോഡലുകൾ ഒരു പ്രത്യേക സ്കീമയിലെക്ക് മാറിയിട്ടുണ്ട് എന്നാണ് ആ സ്കീമ ഇവർ ദൃഡമായി പിൻതുടങ്ങുന്നുണ്ട് അപ്പോൾ ഒരു വിദ്യർത്ഥിയുടെ റ്റേബിൾ ആണ് എങ്കിൽ അവിടെ നമുക്ക് ഐഡി വേണം അത് ഒരു നോൺ നൾ മൂല്യമാണ് പിന്നെ റോൾ നമ്പർ പേര് അങ്ങനെയുള്ളവ എല്ലാം അപ്പോൾ ഇത് ഫെളക്സിബിൾ അല്ല അതുകാരണം ഇത് ഒരു നോഎസ്ക്യുഎൽ പാരാഡിം ആണ് നോഎസ്ക്യൂഎൽ ഡേറ്റാ ബെയ്സിന് ഇതിനെ ഫെളക്സിബിൾ ആക്കണം അപ്പോൾ അതിന് പല തരത്തിൽ ഉളള വിദ്യാർത്ഥികളെ കയറ്റാം ഉദാഹരണത്തിന് പല തരത്തിലുള്ള ആറ്റ്ട്രിബ്യൂട്ടുകൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം ഇനി നിങ്ങൾ സോഷ്യൽ നെറ്റ് വർക്കുകളായ ഫെയ്സ്ബുക്കുകൾ എല്ലാം നോക്കിയാൽ അവിടെ എല്ലാ പേർക്കും ഒരുപാട് കൂട്ടുകാർ ഉണ്ടാകണമെന്നില്ല എല്ലാ പേരും ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല എല്ലാ പേർക്കും ബ്ലോഗ്കൾ ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇത് ഫെളക്സിബൾ ആണ് അപ്പോൾ എല്ലാവരും ഒരു എൻറ്റിറ്റിയാണ് പക്ഷേ അത് ഫെളക്സിബിൾ ആകാം ഇനി അടുത്ത ലക്ഷ്യം എന്നത് നാച്വറൽനസാണ് അതിന്റെ അർത്ഥം എന്തെന്നാൽ ചില സമയങ്ങളിൽ റിലേഷനൽ മോഡലുകൾക്ക് അകത്ത് കയറ്റുവാൻ വേണ്ടി കാര്യങ്ങളെ നമുക്ക് മുറിക്കേണ്ടതായി വരും മുറിച്ച് റിലേഷനൽ സ്കീമാ ആക്കി മാറ്റണം അത് അൺന്വാച്ചറൽ രീതിയിൽ ആയിരിക്കും ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നു വച്ചാൽ RDBMS നെ ഒരുപാട് കാര്യമാക്കേണ്ട ആവശ്യം ഇല്ല കാരണം ഇത് സാധാരണമാണ് ചില സമയത്ത് നിങ്ങൾ ബാങ്ക് അക്കൌണ്ടിന്റെ കാര്യങ്ങൾ കാണും അവിടെ ഡെപ്പോസിറ്ററിനെക്കുറിച്ചും എല്ലാം ഉണ്ടാകും ഇതൊക്കെ നാച്വറൽ ആകണം എന്നില്ല അപ്പോൾ അവിടെ അവർക്ക് അക്കൌണ്ട് പിന്നെ ലോൺ നമ്പർ എന്നിവയൊക്കെ ഉണ്ടാകാം അതാണ് നാച്വറൽനെസ്സ് ഈ NoSQL സിസ്റ്റത്തിന്റെ ലക്ഷ്യം എന്നത് ഇതിനെ കൂടുതൽ നാച്വറൽ ആക്കി നിർത്തുക എന്നതാണ് ഇനി അടുത്ത നാലാമത്തേത് വളരെ പ്രധാനമാണ് ഡിസ്ട്രിബ്യൂഷൺ ആണ് അത് അതിന്റെ ഉദ്ദേശ്യമെന്നത് SQL സിസ്റ്റമോ അല്ലെങ്കിൽ ഒറാക്കിളോ എത്ര വലുതായിരുന്നാലും റിലേഷണൽ ഡേറ്റാബേസ് സിസ്റ്റത്തിന് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതെല്ലാം ഒരു മെഷീനിൽ ആണ് വേരുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മൊത്തം ഡേറ്റയും ഒറ്റ മെഷീനിൽ ആണ് കിടക്കുന്നത് ഒരു വലിയ ഡിസ്കിൽ അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് റ്റ്സിസ്റ്റത്തെ നന്നായിട്ട് അല്ല എസ്ക്യൂഎൽ സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡേറ്റയെ പല മെഷീനുകളിലും കൊടുക്കുക എന്നുള്ളതാണ് അത് ഒരു സാധാരണ ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റം പാരഡിം ആണ് അതിന് ഡേറ്റാ സിസ്റ്റത്തിൽ സാധാരണമായി വരണം അതിന്റെ മുകളിൽ കയറ്റി വയ്ക്കേണ്ട ഒന്ന് അല്ല അത് ഡേറ്റാ ബെയ്സിന്റെ ഡിസൈൻന്റെ ഒരു ഭാഗമാക്കും ഇതാണ് ഡിസ്ട്രീബ്യൂഷൻ ഇനി അവസാനം ആയിട്ടുള്ളത് ഇത് നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളത് ആണ് അപ്പോൾ ഈ സിസ്റ്റം നന്നായി ചെയ്യണം ഇനി നമ്മൾക്ക് എന്തെങ്കിലും ഫേസ്ബുക്ക് അക്കൌണ്ടിൽ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് വേണം നമ്മുടെ കൂട്ടുകാർക്ക് അത് കാണാൻ സാധിക്കണം അതുപോലെ തന്നെ തിരിച്ചും ഇനി ആരെങ്കിലും നമ്മൾക്ക് കമൻറ് എഴുതുകയാണെങ്കിൽ അത് എനിക്ക് കിട്ടണം തിരിച്ചും അതുപോലെ പോകണം അപ്പോൾ ഇതൊക്കെ ആണ് നോഎസ്ക്യുഎൽ സിസ്റ്റത്തിൻറെ ലക്ഷ്യങ്ങൾ ഇനി ഇവിടെ വളരെ ആകർഷകമായ മറ്റൊന്ന് ക്യാപ് തിയറം ആണ് ക്യാപ് തിയറത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ആദ്യത്തേത് കൺസിസ്റ്റൻസി consistency രണ്ടാമത്തേത് അവൈലബിലിറ്റി മൂന്നാമത്തെത് പാർട്ടീഷൻ ടോളറൻസ് അപ്പോൾ പാർട്ടീഷൻ അതായത് അതിന് എത്രമാത്രം പാർട്ടീഷൻ സഹിക്കുവാൻ പറ്റും എന്നുള്ളത് അത് വിതരണം ചെയ്ത നെറ്റ് ആണ് ഇതുകൊണ്ടാണ് ഇതിനെ ക്യാപ് തിയറം എന്നു പറയുന്നത് കാരണം സി എ പിന്നെ പി അപ്പോൾ ക്യാപ് തിയറം അപ്പോൾ ഒരു ഐഡിയൽ സിസ്റ്റത്തിന് ഈ മൂന്ന് പ്രോപ്പർട്ടികളും വേണം പക്ഷേ ക്യാപ് തിയറം പറയുന്നത് എന്തെന്നാൽ സി എ പി എന്ന ഈ മൂന്ന് എണ്ണത്തേയും ഒരേ സമയം തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല നമ്മൾ ഇപ്പോൾ ഈ തീയറം എന്താണെന്ന് പഠിച്ചു അതിനെ നമുക്ക് തെളിയിക്കണം ക്യാപ് തിയറം എന്നു പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു തെളിവ് അല്ല അത് വെറും ഒരു ഊഹം ആണ് അതായത് എല്ലാ സിസ്റ്റത്തിലും എല്ലാം ഉണ്ടാവില്ല എന്ന ഊഹം അപ്പോൾ ഈ ഒരു തിയറത്തിന് തെളിവുകൾ ഇല്ല അത് ഒരു ഊഹം മാത്രമാണ് ശരിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് പക്ഷെ തെളിവുകൾ ഇല്ല ഇങ്ങനെ ഒരു സിംസ്റ്റം ഉണ്ട് എന്നുള്ളതിന് എല്ലാ പ്രോപ്പർട്ടികളെയും അങ്ങനെ തൃപ്തിപ്പെടുത്തുവാനും സാധിക്കുകയില്ല അതേസമയം രണ്ടെണ്ണത്തെ ഒരേ സമയം തൃപ്തിപ്പെടുത്തുന്നവയുണ്ട് ഉദാഹരണത്തിന് ഈ ഒരുസ്ഥലം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻസിയേയും അവൈലബിലിറ്റിയേയും തൃപ്തിപ്പെടുത്തുന്നു പക്ഷേ പാർട്ടീഷൻ ടോലറൻസ് വരുന്നില്ല ഇതാണ് നമ്മുടെ സാധാരണ റിലേഷനൽ ഡേറ്റാബെയ്സ് മാറേജ്മെന്റ് സിസ്റ്റം അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ നേരത്തെ ഒക്കെ ട്രാൻസാക്ഷൻ കൺസിസ്റ്റൻറ് ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇത് ഒരു ACID പ്രോപ്പർട്ടി ആണ് ഉദാഹരണത്തിന് മൊത്തത്തിൽ ഉള്ള അക്കൌണ്ട് ബാലൻസ് എന്നിവ ഒക്കെ മുൻപും ശേഷവും തുല്യമായിരിക്കണം ഇതാണ് കൺസിസ്റ്റൻസി അപ്പോൾ അവൈലബിലിറ്റി എന്നത് ഡേറ്റാബേസ് ഇപ്പോൾ ലഭ്യമാണ് എന്നുള്ളത് അനുമാനിക്കുകയാണ് കാരണം അത് ക്രാഷ് ആവുകയാണെങ്കിൽ മുഴുവനും വീണ്ടും വരും അതിന് റിക്കവറി പ്രോട്ടോകോളുകൾ ഉണ്ട് എന്നിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും വരും എന്നിട്ട് ട്രാൻസാക്ഷന് അതിനെ വീണ്ടും കിട്ടി എന്നുള്ള രീതിയിൽ പെരുമാറും അപ്പോൾ RDBMS ഈ പ്രോപ്പർട്ടി പങ്കുവയ്ക്കുന്നു അല്ലെങ്കിൽ കൺസിസ്റ്റൺസി അവൈലബിലിറ്റി എന്നീ പ്രോപ്പർട്ടികളെ പ്രദർശിപ്പിക്കുന്നു പക്ഷേ പാർട്ടീഷൻ ടോലറൻസ് അതിൽ ഇല്ല ഇതാണ് RDBMS ൽ ഉള്ള പ്രധാന പ്രശ്നം അത് ഡിസ്ട്രീബ്യൂഷന് നല്ലതല്ല അത് കൊണ്ടാണ് ഇത് കൺസിസ്റ്റൻറ്റും അവൈലബുളും ആകുന്നത് അതേസമയം പാർട്ടീഷൻ ടോലറൻസ് ഇല്ല അതേ സമയം നമുക്ക് കൺസിസ്റ്റന്റും പാർട്ടീഷ്യൻ ടോളറൻസും ഉള്ള ഈ ഭാഗം നോക്കാം ഇത് ഡിസ്ട്രിബ്യൂട്ടറിന് കുറച്ചു കൂടി നല്ലത് ആണ് ഉദാഹരണത്തിന് മോൻഗോ DB യും H ബേസും ഉണ്ട് ഇത് കൺസിസ്റ്റൻസും പാർട്ടീഷൻ ടോളറൻസും ഉള്ളതാണ് പക്ഷെ അവ എപ്പോഴും ലഭ്യമാകണമെന്ന് ഉറപ്പില്ല മോൻഗോ DB യുടേയും H ബേസിന്റെയും ഡേറ്റാ ഐറ്റം എപ്പോഴും ലഭ്യമാകണമെന്നില്ല അപ്പോൾ എന്തു സംഭവിക്കും എന്നു വച്ചാൽ നമുക്ക് ഇനി എച്ച് ബേസിന്റെ ഒരു ഉദാഹരണം നോക്കാം പല ടേബിളുകൾ പല മെഷീനുകളിലോട്ടും പോകാറുണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ചില ഡേറ്റാ ഐറ്റം ടേബിളിൽ കയറ്റുകയാണ് അത് മെഷിൻ A യിൽ ആണ് ഇനി മെഷീൻ B ക്ക് എന്തെങ്കിലും ചോദ്യം വേണമെന്നുണ്ടെങ്കിൽ അത് ഉടനെ ലഭ്യമാകുകയില്ല അത് ഉടനെ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ആകാം കാരണം അത് മറ്റൊരു മെഷീനിൽ ആണ് ഉള്ളത് അപ്പോൾ ഇത് കുറച്ചു സമയം എടുക്കും ഇത് ചെയ്ത് വരാൻ അത് കാരണം ഇത് ലഭ്യമാകണമെന്നില്ല അങ്ങനെ വരുമ്പോൾ മെഷീൻ A ചിലപ്പോൾ പ്രവർത്തനക്ഷമം അല്ലാതെ ഇരിക്കാം അപ്പോൾ മെഷീൻ A ഇങ്ങനെ ആകാൻ കാരണം ചിലപ്പോൾ ഇത് ഒരു സിഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയതുകൊണ്ടാകാം അപ്പോൾ ചില തെറ്റുകൾ ഉണ്ടാകാം അപ്പോൾ ഇത് വീണ്ടും വരുന്നതു വരെ ലഭ്യമായിരിക്കുകയില്ല അതായത് മോൻഗോ DB H ബെസ് അതേ സമയം നമ്മുടെ കൈയിൽ മറ്റു തരത്തിലുള്ള സിസ്റ്റങ്ങളും ഉണ്ട് അവിടെ അവൈവബിലിറ്റിയും പാർഷൽ ടോളറൻസും ആണ് വരുന്നത് ഉദാഹരണത്തിന് കൌച്ച് DB കുറച്ചു കുടി വലിയ ഒരു ഉദാഹരണം കസാൻഡ്ര ആണ് ഈ സിസ്റ്റം ഡേറ്റയെ ലഭ്യമാക്കും കാരണം കൌച് DBയും കസാൻഡ്രയും ചെയ്യുന്നത് ഡേറ്റയുടെ പകർപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മെഷ്യൻ A ക്കും മെഷ്യൻ B ക്കും ഓരോ പകർപ്പ് വീതം കിട്ടുന്നു എന്ന് ഉറപ്പു വരുത്തുന്നു ഇവിടെ പാർട്ടീഷൻ ടോളറൻസ് ഉണ്ട് അവ നന്നായി ഡിട്രിബ്യൂട്ടറ്റ് സിസ്റ്റത്തെ സെകയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കൺസിസ്റ്റൻറ്റ് അല്ല എന്തുകൊണ്ടാണ് കൺസിസ്റ്റൻറ്റ് അല്ലാത്തത് ഉദാഹരണത്തിന് മെഷീൻ A യിൽ ഉള്ള പകർപ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു ഇപ്പോൾ മെഷീൻ B യിൽ ഉള്ള പകർപ്പിന് അറിയില്ല A യിൽ ഉള്ളതിനെ അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇത് കൺസിസ്റ്റൻറ്റ് അല്ല കാരണം ഇവിടെ A യിൽ ഉള്ളളതും മെഷീൻ B യിൽ ഉള്ളതും തമ്മിൽ വ്യത്യാസം ഉണ്ട് അപ്പോൾ ആരെങ്കിലും മെഷീൻ B യിൽ നിന്ന് ഡേറ്റാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ ആയിരിക്കും കിട്ടുക കാരണം അപ്ഡേറ്റ് കൊടുത്തത് മെഷീൻ A യിൽ മാത്രമാണ് B ക്ക് അത് കിട്ടിയിട്ടില്ല ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഈ എല്ലാ സിസ്റ്റത്തിലും ഒരു പ്രോപ്പർട്ടിയുടെ കുറവ് ഉണ്ടാകും ഇതാണ് ക്യാപ് തിയറം അത് പറയുന്നത് എല്ലാ ക്യാപിലുള്ള പ്രോപ്പർട്ടികളെയും ഒരേ സമയത്ത് തൃപ്തിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് ഇനി നോഎസ്ക്യൂഎലിന്റെ അടുത്ത ഭാഗത്തേക്ക് കടക്കാം അത് പറയുന്നത് അത് അസിഡ് പ്രോപ്പർട്ടികളെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇത് ശ്രദ്ധിക്കുന്നത് ബേസ് പ്രോപ്പർട്ടികളെ കുറിച്ചാണ് ഈ പേരു തന്നെ പറയുന്നുണ്ട് ബേസ് അസിഡിനെ എതിർക്കുന്നതാണ് അപ്പോൾ ഇവിടെ മൂന്ന് ബേസ് പ്രോപ്പർട്ടികൾ ഉണ്ട് ആദ്യത്തെത് ബേസിക്കലി അവയ്ലബിൾ എന്നതാണ് അതിന്റെ അർത്ഥം അടിസ്ഥാനപരമായി ലഭ്യത ഉണ്ട് എന്നാണ് അതായത് സിസ്റ്റം ലഭ്യത ഉറപ്പു വരുത്തുന്നു പക്ഷേ ഉടൻ തന്നെ കിട്ടും എന്നില്ല അപ്പോൾ കുറച്ചു കഴിഞ്ഞ് കിട്ടും അതുകൊണ്ടാണ് ബേസിക്കലി അവയ്ലബിൾ ഇതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്നത് സോഫ്റ്റ് സ്റ്റേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ഇൻപുട്ട് ഇല്ലാതെ തന്നെ മാറണം എന്നുള്ളതാണ് RDBMSന്റെ ഒരു പ്രധാന കാര്യം എന്നത് ചോദ്യമില്ലാതെയോ ഇൻസർക്ഷൻ ഇല്ലാതെയോ ഡിലീഷൻ ഇല്ലാതെയൊ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഡേറ്റാ ബെസിന്റെ സ്റ്റേറ്റ് മാറുകയെ ഇല്ല അതേ സമയം നോഎസ്ക്യൂഎൽ സിസ്റ്റത്തിനുവേണ്ടി സ്റ്റേറ്റ് വ്യത്യാസം വരുത്താം കാരണം അതിന് ഇതിനെ അവയിലബിളും കൺസിസ്റ്റൻറ്റും ആക്കണം അതിനായിട്ട് ഇത് മറ്റ് മെഷീനുകളുമായിട്ടും ഡിട്രിബ്യൂടറ്റ് സെറ്റപ്പുകളും ഒക്കെ ആയിട്ടും സിങ്കറണയിസ് ചെയ്യും അതുകൊണ്ടാണ് സ്റ്റേറ്റിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് സോഫ്റ്റ് സ്റ്റേറ്റിൽ ആണ് എന്നാണ് അപ്പോൾ സ്റ്റേറ്റിൽ ഇൻപുട്ടും ചോദ്യങ്ങളും വരാതെ തന്നെ വ്യത്യാസം വരുത്താം അതുകൊണ്ടാണ് ഇതിനെ സോഫ്റ്റ് സ്റ്റേറ്റ് എന്നു പറയുന്നത് ഇനി മൂന്നമത്തേതും അവസാനത്തെതുമായ പ്രൊപ്പർട്ടി എന്നത് ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്നതാണ് ഇവൻച്വൽ കൺസിസ്റ്റൻസി എന്നതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇടക്കാല അസ്വസ്ഥതകൾ ഒന്നും ഇല്ലെങ്കിൽ ഡേറ്റ അവസാനം കൺസിസ്റ്റൻറ്റ് ആകും എന്നാണ് അതായത് ഒരു പ്രത്യേക സമയത്ത് ഡേറ്റ കൺസിസ്റ്റൻറ്റ് ആകും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പൊലെ മെഷീൻ A അപ്ഡേറ്റ് ചെയ്യും മെഷീൻ B അപ്ഡേറ്റ് ആകുകയില്ല പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞതിനുശേഷം മെഷീൻ A ട്രാൻസിലേറ്റ് ആകും അല്ലെങ്കിൽ A അപ്ഡേറ്റ് ചെയ്ത ഡേറ്റയെ മെഷീൻ B യിലേക്ക് ട്രാൻസർ ചെയ്യും അങ്ങനെ മെഷീൻ B യെ ഈ അപ്ഡേഷനെ കുറിച്ച് അറിയിക്കും അങ്ങനെ B യും അപ്ഡേറ്റ് ആകും ഇവിടെ അസ്വസ്തത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഷീൻ B യിലേക്ക് ഇൻപുട്ട്കൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്റെയടുത്ത് മെഷീൻ A യുടെ അടുത്തു പോയി അപ്ഡേഷൻ എടുക്കുവാൻ പറയേണ്ട ആവശ്യം ഇല്ല A തന്നെ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ ഇവിടെ ഇവൻച്വൽ കൺസിസ്റ്റൻസി വരുന്നു പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നോഎസ്ക്യൂഎൽ സിസ്റ്റം ഇപ്പോഴും കൺസിസ്റ്റന്റ് ആകണമെന്നില്ല അത് ഈവൻച്വലി കൺസിസ്റ്റൻറ്റ് ആണ് അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ സ്നാപ്ഷോട്ട് എടുക്കുകയാണെങ്കിൽ അത് കൺസിസ്റ്റൻറ്റ് ആകണമെന്നില്ല അതുകൊണ്ടാണ് ഇതിനെ ബേസ് പ്രോപ്പർട്ടി എന്ന് വിളിക്കുന്നത് ദാ ഇവിടെ ബേസിക്കലി അവൈലബിൾ സോഫ്റ്റ് സ്റ്റേറ്റ് പിന്നെ ഈവൻച്ഛ്വൽ കൺസിസ്റ്റൻസി അപ്പോൾ ബേസ് ഇത് ആസിഡ് പ്രോപ്പർട്ടിയെ എതിർക്കാൻ വേണ്ടി ഉള്ളത് ആണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയത് ഒരു ഡേറ്റാബേസ് സിസ്റ്റം എപ്പോഴും കൺസിസ്റ്റൻറ് ആകണമെന്ന് ഇല്ല അപ്പോൾ കൺസിസ്റ്റൻസിയെ ത്യജിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈവൻച്ഛ്വൽ കൺസിസ്റ്റൻസി ആകുന്നു ഇത് ആസിഡ് പ്രോപ്പർട്ടിയെ എതിർക്കാൻ വേണ്ടി ഉള്ളതാണ്